സ്റ്റാൻഡേർഡ് ഇൻപുട്ടായ കീബോർഡിൽ കൂടി ഇൻപുട്ട് ശേഖരിക്കുവാൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങിനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും വിലകൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുവാൻ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങിനെയാണ് ഉപയോഗിക്കേണ്ട് എന്നുമാണ് അവസാനത്തെ ലക്ച്റിൽ നമ്മൾ കണ്ടത് ഇപ്പോൾ കുറഞ്ഞ അളവിലുള്ള ഡാറ്റയ്ക്ക് ഇത് ഉപയോഗപ്രദമാണ് എന്നാൽ നമുക്ക് വലിയ അളവിലുള്ള ഡാറ്റയെ സ്വീകരിക്കേണ്ടതായി വരും ഇവ കൈ കൊണ്ട് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അവയെ ഈ സ്ക്രീനിൽ ഒരു സ്ക്രോൾ പാസ്സ് ആയി കാണുകയോ എന്നത് അപ്രായോഗികമാണ് അതുകൊണ്ട് കൂടുതൽ അളവിലുള്ള ഡാറ്റയ്ക്ക വേണ്ടി ഡിസ്ക്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയലുകൾ കൈകാര്യം ചെയ്യുവാൻ നമ്മൾ നിർബന്ധിതരാകുന്നു അതുകൊണ്ട് ഡിസ്ക്കിൽ നിലവിൽ എഴുതപ്പെട്ട ഒരു ഫയലിൽ നിന്ന് നമുക്ക് വലിയ അളവിലുള്ള ഡാറ്റയെ സ്വീകരിക്കേണ്ടതായി വരും മാത്രമല്ല നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത ഔട്ട്പുട്ടിനെ തിരികെ ഡിസ്ക്കിലുള്ള മറ്റൊരു ഫയലിലേക്ക് എഴുതേണ്ടതായും വരും ഡിസ്ക്കിനെ കൈകാര്യം ചേയ്യുമ്പോൾ ഡിസ്ക്കിൽ നിന്ന് റീഡ് ചെയ്യുക ഡിസ്ക്കിലേക്ക് എഴുതുക എന്നിവ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുക മെമ്മറിയേക്ക് എഴുതുക എന്നിവയേക്കാൾ വളരെയേറെ പതുക്കെയാണ് എന്നതാണ് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇത് മറികടക്കുവാൻ മിക്കവാറും സിസ്റ്റങ്ങൾ ഡാറ്റ റീഡ് ചെയ്യുന്നതും എഴുതുന്നതും വലിയ ബ്ലോക്കുകളിലായിരിക്കും വലിയ പെട്ടികളിൽ സൂക്ഷിക്കുന്ന വലിയ സംഭരണശേഷി സൌകര്യം നിങ്ങൾക്കുണ്ടെന്ന് സങ്കല്പിക്കുക നിങ്ങൾ ഒരു പുസ്തകത്തിന് വേണ്ടി മാത്രമാണ് ആ പെട്ടിയിൽ നോക്കുന്നതെങ്കിലും നിങ്ങൾ എന്തെങ്കിലും എടുക്കുവാനായി നീങ്ങുമ്പോൾ ഒരു സമയത്ത് നിങ്ങൾ ഒരു പെട്ടിയാണ് എടുക്കുന്നത് നിങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല സംഭരണ സൌകര്യത്തിലുള്ള പെട്ടിയിൽ നിന്ന് നിങ്ങൾ ഒരു പുസ്തകമെടുക്കുന്നു നിങ്ങൾ മുഴുവൻ പെട്ടികളും എടുക്കുന്നു മാത്രമല്ല സാധനങ്ങൾ വീണ്ടും തിരികെ വെയ്ക്കുമ്പോൾ നിങ്ങൾ അവയെ സംയോജിപ്പിച്ച് ഒരു പെട്ടിയിലാക്കി തിരികെ വെയ്ക്കുന്നു അതേപൊലെതന്നെ മെമ്മറിക്കും ഡിസ്ക്കിനും ഇടയിൽ ഡാറ്റ അങ്ങോട്ടുമിങ്ങോട്ടും സഞ്ചരിക്കുന്നത് കഷണങ്ങളായാണ് ഇതിന് പറയുന്ന പേരാണ് ബ്ലോക്കുകൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വില മാത്രമാണ് അല്ലെങ്കിൽ ഒരു വരി മാത്രമാണ് റീഡ് ചെയ്യേണ്ടതെങ്കിലും യഥാർത്ഥത്തിൽ അത് ഡിസ്ക്കിൽ നിന്ന് വലിയ അളവിലുള്ള ഡാറ്റ എടുക്കുന്നു കൂടാതെ അവയെ ബഫർ എന്ന് പേരുള്ള ഒരിടത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നു മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്താണോ അത് ബഫറിൽ നിന്ന് റീഡ് ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്ക് ഡിസ്ക്കിലേക്ക് എഴുതണമെങ്കിൽ ബഫറിലുള്ള നിങ്ങളുടെ ഡാറ്റയെ സംയോജിപ്പിക്കുന്നു ഡിസ്ക്കിലേക്ക് എഴുതപ്പെടാനുള്ളത് ബഫറിൽ ആവശ്യമുള്ള അളവിലുള്ളപ്പോൾ ഒരു കഷണം ഡാറ്റ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഡാറ്റ ഡിസ്ക്കിലേക്ക് തിരികെ എഴുതപ്പെടുന്നു നമ്മൾ ഒരു ഡിസ്ക്കിൽ നിന്ന് റീഡ് ചെയ്യുകയോ ഡിസ്ക്കിലേക്ക് എഴുതുകയോ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബഫറുമായി ഇതിനെ ബന്ധിപ്പിക്കുകയാണ് ഇതിന് പറയുന്ന പേരാണ് ഒരു ഫയൽ തുറക്കുക എന്ന് അതുകൊണ്ട് നമ്മൾ ഒരു ഫയൽ തുറക്കുമ്പോൾ ഒരു ഫയൽ ഹാൻഡിൽ സൃഷ്ടിക്കുന്നു കൂടാതെ ആ ഫയലിൽ നിന്ന് മെമ്മറിയിലേക്ക് ഡാറ്റ റീഡ് ചെയ്യാനോ തിരിച്ച് എഴുതുവാനോ വേണ്ടിയുള്ള ബഫറിനെ ആക്സസ് ചെയ്യുന്നതുപോലെയാണിത് എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാം ഈ ഫയൽ ഹാൻഡിൽ തുറന്നതിന് ശേഷം ഫയലിൽ നാം ചെയ്യുവാനുദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ചെയ്യപ്പെടുന്നത് ഈ ഫയൽ ഹാൻഡിലുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് നാം നേരിട്ട് ഡിസ്ക്കിലേക്ക് എഴുതുവാനോ ഡിസ്ക്കിൽ നിന്ന് റീഡ് ചെയ്യുവാനോ ശ്രമിക്കുന്നില്ല പകരം ഈ ഈ ഫയൽ ഹാൻഡിൽ ഉപയോഗിച്ച് തുറക്കപ്പെട്ട ബഫറിലേക്കാണ് നമ്മൾ റീഡ് ചെയ്യുകയോ എഴുതുകയോ ചെയ്യുന്നത് കൂടാതെ അവസാനമായി പ്രോസസിംഗ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എഴുതപ്പെട്ട മുഴുവൻ ഡാറ്റയും തിരിച്ചു പോയിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഫയൽ അടച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഫയൽ അടയ്ക്കുന്നതിന് രണ്ട് ഫലങ്ങളുണ്ട് നമ്മൾ ഉദ്ദേശിച്ച എല്ലാ മാറ്റങ്ങളും ഫയലിലേക്ക് വരുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എന്നതാണ് ഒന്നാമത്തെ ഫലം നമ്മൾ ഫയലിലേക്ക് എഴുതുവാനുദ്ദേശിക്കുന്ന ഏത് ഡാറ്റയും യഥാർത്ഥത്തിൽ ബഫറിൽ നിന്ന് പുറത്തെടുക്കുകയും ഡിസ്ക്കിലേക്ക് നൽകുകയും വേണം മാത്രമല്ല സാങ്കേതികമായി ഇതിന് പറയുന്നത് ബഫർ ഫ്ലഷ് ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഫയൽ അടയ്ക്കുുമ്പോൾ ഔട്ട്പുട്ട് ബഫർ ഫ്ലഷ് ചെയ്യുകയും ഒന്നും തന്നെ നഷ്ടപ്പെടാതെ മുഴുവൻ കാര്യങ്ങളും ഫയലിലേക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നു അത് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില യുക്തിയിൽ ഈ ബഫർ നഷ്ടപ്പെട്ടുപോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അപ്പോൾ സജ്ജമാക്കിയ ഫയൽ ഹാൻഡിലിനെ അത് വിച്ഛേദിക്കുന്നു ഇപ്പോൾ ഈ ഫയൽ തുടർന്ന് നമ്മളോട് ബന്ധപ്പെട്ടിട്ടില്ല നമുക്ക് വീണ്ടും അതിനെ വായിക്കുകയോ എഴുതുകയോ വേണമെങ്കിൽ നമുക്ക് വീണ്ടും അതിനെ തുറക്കേണ്ടതുണ്ട് ഒരു ഫയൽ തുറക്കുവാനുള്ള നിർദ്ദേശമാണ് ഓപ്പൺ നിങ്ങൾ കൊടുക്കേണ്ട ഒന്നാമത്തെ ആർഗ്യുമെന്റ് നിങ്ങളുടെ ഡിസ്ക്കിലെ ഫയലിന്റെ യഥാർത്ഥ പേരാണ് ഇപ്പോൾ ഇത് ഏത് സിസ്റ്റമാണ് നിങ്ങളുപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ സാധാരണയായി അതിനൊരു ഒന്നാമത്തെ ഭാഗവും ഒരു എക്സ്റ്റൻഷനും ഉണ്ടായിരിക്കും ഈ നിർദ്ദശം ഉദാഹരണത്തിന് gcd py എന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ വ്യക്തമായി നിങ്ങൾ ഒരു ഫയലിന്റെ പേര് കൊടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടി എവിടെയാണോ നിങ്ങളുടെ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അവിടെ അതായത് നിലവിലുള്ള ഫോൾഡറിൽ അല്ലെങ്കിൽ ഡൈരക്ടരിയിൽ അത് തിരയും അതുകൊണ്ട് ഒരു പാത്ത് നൽകി നിങ്ങളുടെ ഡൈരക്ടരിയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഫയലിന്റെ പേര് നൽകാം കൂടാതെ എങ്ങിനെയാണ് നിങ്ങൾ പാത്ത് വിവരിക്കുന്നത് എന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് വിൻഡോസിലാണോ യുണിക്സിലാണോ അല്ലെങ്കിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ നിങ്ങളുപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇപ്പോൾ നിങ്ങൾക്കൊരു രണ്ടാമത്തെ ആർഗ്യുമെന്റ് അവിടെ കാണാവുന്നതാണ് 'r' എന്ന അക്ഷരം ഫയൽ തുറക്കുന്നത് എങ്ങിനെ വേണമെന്ന് അത് നമ്മളോട് പറയുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ സാധിക്കും ഒരു ഫയലിലിൽ നിന്ന് റീഡ് ചെയ്യുകയും അതിലേക്ക് എഴുതുകയും ചെയ്തു കൊണ്ട് നിങ്ങൾ അതിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്ങിൽ അത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് നമുക്കെന്താണ് ചെയ്യുവാൻ സാധിക്കുക എന്ന് വെച്ചാൽ ഒരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ പോകുകയാണോ അല്ലെങ്കിൽ അതിലേക്ക് എഴുതുവാൻ പോകുകയാണോ എന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം ഒരേ സമയത്ത് നമുക്ക് രണ്ടും ചെയ്യാൻ സാധിക്കില്ല ഒരു ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുമ്പോൾ ഒരേ സമയത്ത് അതിൽ നിന്ന് റീഡ് ചെയ്യുവാനും അതിൽ മാറ്റം വരുത്തുവാൻ ചെയ്യുവാനും ഒരു മാർഗ്ഗവുമില്ല അതുകൊണ്ട് 'r'സൂചിപ്പിക്കുന്നത് റീഡിനെയാണ് ഇപ്പോൾ write രണ്ട് തരത്തിൽ വരുന്നുണ്ട് നമുക്ക് ഒരു പുതിയ ഫയൽ ആദ്യം മുതൽ സൃഷ്ടിക്കേണ്ടതായി വന്നേക്കാം ഈ സാഹചര്യത്തിൽ നമ്മൾ 'w' എന്ന അക്ഷരം ഉപയോഗിക്കുന്നു അതുകൊണ്ട് 'w' കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു പുതിയ ഫയൽ സൃഷ്ടിക്കുക എന്നതാണ് ഇതിനെപ്പറ്റി നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നിലവിലുള്ള ഒരു ഫയലിനെ 'w' എന്ന മോഡിൽ ഓപ്പൺ ചെയ്ത് അതിലേക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് ഫയലിൽ നിലവിലുള്ള ഡാറ്റയ്ക്ക് മുകളിൽ എഴുതപ്പെടും ചെയ്യാൻ പറ്റുന്ന ഉപയോഗപ്രദമായേക്കാവുന്ന മറ്റൊരു കാര്യം നിലവിലുള്ള ഒരു ഫയലെടുക്കകയും അതിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുക എന്നതാണ് ഇതാണ് അപ്പെൻഡ് അതുകൊണ്ട് നമുക്ക് രണ്ട് റൈറ്റിംഗ് മോഡുകളുണ്ട് 'w' റൈറ്റിന് വേണ്ടിയും 'a' അപ്പെൻഡിന് വേണ്ടിയും അപ്പെൻഡ് ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ അത് നിലവിലുള്ള ഒരു ഫയലെടുത്ത് അതിന്റെ അവസാന ഭാഗത്ത് പുതിയ ഡാറ്റ എഴുതുന്നു നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്താൽ അത് എങ്ങിനെ റീഡ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം അതുകൊണ്ട് ഫയൽ ഹാൻഡിൽ വഴി നമ്മൾ റീഡ് ചെയ്യുവാനുള്ള നിർദ്ദേശം വിളിക്കും സ്ട്രിങ്ങ് തുടങ്ങിയവയിൽ കണ്ടതുപോലെയുള്ള മറ്റു ഫംങ്കംഷൻ പോലെയാണിത് അവിടെ നമ്മൾ ഒബ്ജക്ടിൽ ഫംങ്കംഷൻ ബന്ധിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത ഫയൽ ഹാൻഡിൽ ആണ് fh അതിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യണം അതുകൊണ്ട് fh read എന്ന് നമ്മൾ പറയും fh read ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ അത് ഒരു സ്ട്രിങ്ങിലേക്ക് ഫയലിന്റെ മുഴുവൻ വിവരങ്ങളും സ്വീകരിക്കുന്നു കൂടാതെ അത് തിരികെ അയക്കുമ്പോൾ നമുക്ക് ഏത് പേരിലേക്ക് വേണമെങ്കിലും അസൈൻ ചെയ്യാാൻ സാധിക്കും ഇവിടെ നമ്മൾ ഉപയോഗിച്ച പേര് contents എന്നാണ് അതുകൊണ്ട് contents എന്ന ഒറ്റ സ്ട്രിങ്ങിനകത്ത് fh എന്ന ഫയൽ ഹാൻഡിൽ സൂചിപ്പിക്കുന്ന മുഴുവൻ ഡാറ്റയും ഇപ്പോൾ അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നമുക്കും ഒരു ഫയലിനെ ഉപയോഗിക്കാവുന്നതാണ് ടെക്സ്റ്റ് ഫയലുകളാണ് നമ്മൾ താരതമ്യേന കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ടെക്സ്റ്റ് ഫയലുകളിൽ സാധരണ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വരികളാണ് ഉദാഹരണത്തിന് പൈത്തൺ കോഡിനെപ്പറ്റി ചിന്തിക്കുക നമുക്ക് ഒന്നിന് പിറകെ മറ്റൊന്നായി ധാരാളം വരികളുണ്ട് ന്യൂ ലൈൻ പ്രതീകത്തിൽ അവസാനിക്കുന്ന ടെക്സ്റ്റിന്റെ ഒരു കൂട്ടം സ്വാഭാവികമായ ഒരു യൂണിറ്റാണ് ഇൻപുട്ട് കമാന്റ് ഇതാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ ഇൻപുട്ട് കമാന്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന എന്തോ കാര്യത്തിന് കാത്തിരിക്കുന്നു നിങ്ങൾ റിട്ടേൺ പ്രസ്സ് ചെയ്യുമ്പോൾ പുതിയ ഒരു വരി ഉണ്ടാകുന്നു മാത്രമല്ല റിട്ടേൺ വരെ നിങ്ങൾ ഇൻപുട്ടായി എന്താണോ ടൈപ്പ് ചെയ്തത് അത് ഒരു സ്ട്രിങ്ങായി നിങ്ങൾ ഇൻപുട്ടിന് വേണ്ടി നൽകിയ ഒരു പേരിലേക്ക് അയച്ചുകൊടുക്കുന്നു അതുകൊണ്ട് readline അതുപോലെയാണ് എന്നാൽ readline ഉം input ഉം തമ്മിലുള്ള വ്യത്യാസമെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ readline ഉപയോഗിച്ച് ഒരു വരി റീഡ് ചെയ്യുമ്പോൾ ഇൻപുട്ട് സ്ട്രിങ്ങിനൊപ്പം അവസാനത്തെ ന്യൂ ലൈൻ പ്രതീകവും നിങ്ങൾക്ക് ലഭിക്കും input ഉപയോഗിക്കുമ്പോൾ അവസാനത്തെ ന്യൂ ലൈൻ പ്രതീകത്തിന് മുമ്പുള്ള പ്രതീകങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ന്യൂ ലൈൻ പ്രതീകം ഉൾപ്പെടുന്നില്ല എന്നാൽ readline ൽ നിങ്ങൾക്ക് ന്യൂ ലൈൻ പ്രതീകം ലഭിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു അധിക പ്രതീകം നിങ്ങളുടെ സ്ട്രിങ്ങിന്റെ അവസാനം പൊങ്ങിക്കിടക്കും അതുകൊണ്ട് n ഇതിനെ പരമ്പരാഗതമായി സൂചിപ്പിക്കുന്നു രണ്ട് പ്രതീകങ്ങളായി കാണുമെങ്കിലും n ഒരു പ്രതീകത്തിനെ സൂചിപ്പിക്കുന്ന ഒരു നൊട്ടേഷൻ ആണ് ഇതാണ് ന്യൂ ലൈൻ പ്രതീകം ഇപ്പോൾ യഥാർത്ഥ ന്യൂ ലൈൻ പ്രതീകം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നാൽ പൈത്തണിൽ നമ്മൾ n ഉപയോഗിക്കുന്നു മാത്രമല്ല നിങ്ങളുപയോഗിക്കുന്ന എല്ലാ സിസ്റ്റങ്ങളിലും അത് ശരിയായി തർജ്ജമ ചെയ്യും ഫയലിൽ നിന്ന് നിങ്ങൾക്ക് റീഡ് ചെയ്യുവാനുള്ള മൂന്നാമത്തെ മാർഗ്ഗം എല്ലാ വരികളും ഒന്നൊന്നായി റീഡ് ചെയ്ത് സ്ട്രിങ്ങുകളുടെ ഒരു ലിസ്റ്റിലേക്ക് അയക്കുക എന്നതാണ് അതുകൊണ്ട് പകരം readline ഞാൻ ഉപയോഗിക്കുന്നത് readlines ആണെങ്കിൽ മുഴുവൻ ഫയലിനെയും സ്ട്രിങ്ങുകളുടെ ഒരു ലിസ്റ്റായ അത് റീഡ് ചെയ്യുന്നു ഓരോ സ്ട്രിങ്ങും ലിസ്റ്റിലെ ഒരു ഇനമാണ് മാത്രമല്ല ഇതിലെ ഓരോ വരികളിലും n ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് read readline readlines ഇവയിലൊന്നും തന്നെ യഥാർത്ഥത്തിൽ n നീക്കം ചെയ്യുന്നില്ല നിങ്ങളുടെ ഇൻപുട്ടിന്റെ ഭാഗമായി അവ വിശ്വസ്തതയോടെ തുടരും മറ്റു വാക്കുകളിൽ നിങ്ങൾ ഇത് ഒരു ഫയലിൽ നിന്ന് മറ്റൊരു ഫയലിലേക്ക് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ n വീണ്ടും ഉൾപ്പെടുത്തുന്നതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല കാരണം ഇത് ഇതിനകം അവിടെയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇൻപുട്ട് ഔട്ടുപട്ട് നേരിട്ടുപയോഗിക്കുവാൻ സാധിക്കും എന്നാൽ മറിച്ച് നിങ്ങൾക്ക് സ്ട്രിങ്ങിലെന്തെങ്കിലം കൈകാര്യം ചെയ്യണമെങ്കിൽ ഈ n അവിടെയുണ്ടെന്നും അതിനെ നിങ്ങൾ ഉചിതമായി കൈകാര്യം ചെയ്യണമെന്നും നിങ്ങൾ ഓർമ്മിക്കണം ഫയലുകൾ റീഡ് ചെയ്യുന്നത് അന്തർലീനമായ ഒരു തുടർച്ചയായ പ്രവർത്തനമാണ് തീർച്ചയായും നിങ്ങൾ അടിസ്ഥാന കമാന്റായ read ഉപയോഗിക്കുകയാണെങ്കിൽ അത് മുഴുവൻ ഉള്ളടക്കവും റീഡ് ചെയ്യുന്നു അതുകൊണ്ട് സ്പഷ്ടമായി അത് തുടക്കം മുതൽ അവസാനം വരെ അത് റീഡ് ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ഒരു സമയത്ത് ഒരു വരി മാത്രമാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ അത് പ്രവർത്തിക്കുന്ന മാർഗ്ഗം എങ്ങിനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ ഫയലിന്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് നമ്മൾ എവിടെയാണ് അടുത്തതായി റീഡ് ചെയ്യാൻ പോകുന്നത് എന്ന് ഒരു ചുവപ്പ് അമ്പടയാളം സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാം അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ തുടക്കത്തിൽ നിന്നാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഓരോ readline ഉം നമ്മളെ മുമ്പോട്ട് കൊണ്ട് പോകുന്നു ഞാനൊരു readline ഈ സ്ഥാനത്ത് കൊടുക്കുകയാണെങ്കിൽ അത് അടുത്ത n ലേക്ക് എന്നെ കൊണ്ടുപോകുന്നു n കൊണ്ട് വേർതിരിക്കപ്പെട്ട ഒരു അളവാണ് ഒരു വരിയെന്ന് ഓർക്കുക അതുകൊണ്ട് 100 പ്രതീകങ്ങളുള്ള ഒരു വരി നമുക്കുണ്ടാവാം അടുത്ത വരിയിൽ 3 പ്രതീകങ്ങളാവാം ഒരു n മുതൽ അടുത്തത് വരെയാണ് ഒരു വരി അതായത് ഇതൊരു സ്ഥിര ലിങ്കല്ല അതുകൊണ്ട് n വരെ നമ്മൾ ഒരു സമയത്ത് ഒരു പ്രതീകമെന്ന രീതിയിൽ റീഡ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകും അതിന് ശേഷം n വരെയുള്ള മുഴുവൻ കാര്യങ്ങളും readline ഒരു സ്ട്രിങ്ങായി തിരിച്ചു നൽകുകയും അടുത്ത പ്രതീകത്തിലേക്ക് പോയിന്റർ നീങ്ങുകയും ചെയ്യുന്നു ഇനി നമ്മൾ മറ്റൊരു readline ഉപയോഗിച്ച് മിക്കവാറും വ്യത്യസ്തമായ വരി റീഡ് ചെയ്യുന്നു പോയിന്റർ വീണ്ടും മുമ്പോട്ട് നീങ്ങുന്നു അതുകൊണ്ട് ഈ മാർഗ്ഗത്തിൽ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ പോകുന്നു നമുക്ക് യഥാർത്ഥത്തിൽ വഴിതിരിച്ചു വിടണമെന്നുണ്ടെങ്കിൽ സീക്ക് seek എന്ന് പേരുള്ള ഒരു കമാന്റുണ്ട് അത് സ്ഥാനത്തിനെ n എന്ന ഒരു പൂർണ്ണസംഖ്യയായി എടുക്കുകയും നിങ്ങൾ എവിടെയാണെന്നത് പരിഗണിക്കാതെ തന്നെ നേരിട്ട് സ്ഥാനത്തേക്ക് നീങ്ങുകയും ചെയ്യുന്നു വരിവരിയായി തുടർച്ചയായി വായിക്കാതെ ഒരു ഫയലിൽ നിന്ന് പിറകിലേക്ക് നീങ്ങുവാനോ ഒരു ഫയലിൽ ചുറ്റിക്കറങ്ങുവാനോ ചെയ്യുവാനുള്ള ഒരു മാർഗ്ഗമാണിത് അവസാനമായി ഒരു ഫയലിനെ മുഴുവൻ റീഡ് ചെയ്യാതെ ഒരു നിശ്ചിത എണ്ണം പ്രതീകങ്ങളെ റീഡ് ചെയ്യുന്ന തരത്തിൽ റീഡ് സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കും ഡാറ്റയുടെ നിശ്ചിത ബ്ലോക്കുകളാണ് നിങ്ങളുടെ ഫയലിൽ യഥാർത്ഥത്തിൽ ഉള്ളതെങ്കിൽ ഇത് ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞേക്കാം ഉദാഹരണത്തിന് പാൻ നമ്പറുകൾ സാധാരണ 10 പ്രതീകങ്ങളുടെ നീളമായിരിക്കും കൂടാതെ ഓരോ പാൻ നമ്പറിലും 10 പ്രതീകങ്ങളുള്ളത് കൊണ്ട് ന്യൂ ലൈൻ പ്രതീകങ്ങളില്ലാതെ അവയെ ഒരു വലിയ ടെക്സ്റ്റിന്റെ ശ്രേണിയായി നമുക്ക് സൂക്ഷിക്കുവാൻ സാധിക്കും അതുകൊണ്ട് fh read എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് അടുത്ത പാൻ നമ്പർ റീഡ് ചെയ്യുകയും മാത്രമല്ല ഇത് പോലെ ചെയ്യുകയാണെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ കുറച്ച് സ്ഥലം ലാഭിക്കുവാനും സാധിക്കും അതുകൊണ്ട് നിശ്ചിത എണ്ണം പ്രതീകങ്ങൾ റീഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഇതിനെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്ന അവസരങ്ങളുണ്ടായിരിക്കും നമ്മൾ ഒരു ഫയൽ ഇൻക്രിമെന്റലായി റീഡ് ചെയ്യുമ്പോൾ ഫയലിന്റെ പരിധി കഴിഞ്ഞോ എന്ന് അറിയുന്നത് വളരെ ഉപകാരപ്രദമാണ് കാരണം ഒരു ഫയൽ എത്ര വലുതാണെന്നോ അതിൽ എത്ര വരികളുണ്ട് എന്നോ നമുക്ക് മുൻകൂട്ടി അറിയില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു ഫയലിനെ വരി വരിയായി റീഡ് ചെയ്യുകയാണെങ്കിൽ ഫയൽ എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി അറിയുവാൻ രണ്ട് സാഹചര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ റീഡ് കമാന്റ് ഉപയോഗിച്ച് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും തിരിച്ച് ലഭിക്കാതെ ശൂന്യമായ ഒരു സ്ട്രിങ്ങ് ആണ് ലഭിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഫയലിന്റെ പരിധി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ ഫയലിന്റെ അവസാനം എത്തിയിരിക്കുന്നു അതുപോലെ നമ്മൾ ഒരു വരി റീഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ശൂന്യമായ ഒരു സ്ട്രിങ്ങ് ആണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഫയലിന്റെ അവസാനം എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ തുടർച്ചയായിട്ടാണ് തുടക്കത്തിൽ നിന്ന് അവസാനത്തിലേക്ക് പോകുന്നത് എന്ന് ഓർമ്മിക്കുക അതുകൊണ്ട് നമ്മൾ ഫയലിന്റെ അവസാനമെത്തിയിരിക്കുന്നു മാത്രമല്ല ഈ ഫയലിൽ നിന്ന് കൂടുതലായി റീഡ് ചെയ്യവാൻ ഇനി ഒന്നുമില്ല ഒരു ഫയലിൽ നിന്ന് വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഫയലിലേക്ക് എഴുതുക എന്നതാണ് അതുകൊണ്ട് ഒരു ഫയലിലേക്ക് എങ്ങിനെയാണ് നിങ്ങൾ എഴുതേണ്ടത് എന്ന് ഇവിടെയുണ്ട് നിങ്ങൾക്ക് റീഡ് കമാന്റുള്ളതുപോലെ നിങ്ങൾക്ക് ഒരു റൈറ്റ് write കമാന്റുണ്ട് എന്നാൽ നിങ്ങൾ നൽകിയ ഫയലിൽ നിന്ന് എന്തെങ്കിലും വ്യക്തമായി എടുക്കുന്ന read ന് വ്യത്യസ്തമായി ഇവിടെ നിങ്ങൾക്ക് നൽകുവാനുള്ളത് ഫയലിലേക്ക് ഇടേണ്ട എന്തെങ്കിലുമാണ് അതുകൊണ്ട് ഒരു സ്ട്രിങ്ങിനെ റൈറ്റ് ആർഗ്യുമെന്റായി എടുക്കുന്നു write എന്ന് നിങ്ങൾ പറഞ്ഞാൽ s എന്ന സ്ട്രിങ്ങിനെ എടുക്കുകയും അതിനെ ഫയലിലേക്ക് എഴുതുകയും ചെയ്യുക എന്നാണ് ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ s ന് ഒരു n ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ആവാം അതുകൊണ്ട് നിങ്ങൾക്ക് ഫയലിൽ ഏത് മാർഗ്ഗത്തിൽ എഴുതപ്പെടണമെന്ന് എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു വരിയോ ഒരു വരിയുടെ ഭാഗമോ ഒന്നിൽ കൂടുതൽ വരികളോ നിങ്ങൾക്ക് s ലേക്ക് എഴുതേണ്ടി വരും നിങ്ങൾക്ക് അത് ഒരു വരിയിൽ ആവശ്യമാണെങ്കിൽ അത് ഒരു n ൽ അവസാനിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക കൂടാതെ എത്ര പ്രതീകങ്ങളാണ് എഴുതപ്പെട്ടത് അതാണ് ഈ റൈറ്റ് റിട്ടേൺ ചെയ്യുന്നത് ഇപ്പോൾ ഇത് ചെയ്യാൻ വിചിത്രമായ ഒരു കാര്യമായി തോന്നാം എന്ത് കൊണ്ട് അത് നിങ്ങളോട് പറയണം കാരണം എത്ര പ്രതീകങ്ങളാണ് എഴുതപ്പെടേണ്ടതെന്ന് നിങ്ങൾക്ക് s ന്റെ നീളത്തിൽ നിന്ന് മനസ്സിലാവുന്നതാണ് എന്നാൽ ഡിസ്ക്ക് നിറഞ്ഞുകഴിഞ്ഞെങ്കിൽ ഇത് ഉപകാരപ്രദമാണ് ഒരു വലിയ സ്ട്രിങ്ങ് നിങ്ങൾ എഴുതുവാൻ ശ്രമിച്ചിട്ട് സ്ട്രിങ്ങിന്റെ ചെറിയ ഭാഗം മാത്രമാണ് എഴുതപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ റൈറ്റിൽ ഒരു പ്രശ്നമുണ്ട് എന്നതിന്റെ ഒരു സൂചനയാണിത് അതുകൊണ്ട് എഴുതുവാൻ ശ്രമിച്ച പ്രതീകങ്ങളിൽ എത്ര പ്രതീകങ്ങളാണ് യഥാർത്ഥത്തിൽ എഴുതപ്പെട്ടത് എന്ന് അറിയുന്നത് ചിലപ്പോൾ ഉപകാരപ്രദമായിരിക്കും വലിയ അളവിൽ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് റൈറ്റ് ലൈൻസ് writelines അതുകൊണ്ട് ഇത് സ്ട്രിങ്ങുകളുടെ ഒരു ലിസ്റ്റെടുത്ത് അവ ഓരോന്നായി ഫയലിലേക്ക് എഴുതുന്നു അതായത് നിങ്ങൾക്ക് അവയെ വരികളായി വേണമെങ്കിൽ അവയിലോരോന്നും n ഉപയോഗിച്ച് അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം അതായത് ഈ പേര് അല്പം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അവ അങ്ങിനെയല്ലെങ്കിൽ അവ കൂടിച്ചേർന്ന് ഒരു വലിയ വരിയായി രൂപം കൊള്ളും അതുകൊണ്ട് സ്ട്രിങ്ങുകളുടെ ഒരു ലിസ്റ്റിനെ എഴുതുന്നത് പോലെയാണ് writelines എന്ന് പറയുമെങ്കിലും ഈ ഫംങ്ക്ഷന് ഏറ്റവും യോജിച്ചതാണ് അത് അത് സ്ട്രിങ്ങുകളുടെ ഒരു ലിസ്റ്റിനെ എടുക്കുകയും അതിനെ ഫയൽ ഹാൻഡിൽ പോയിന്റ് ചെയ്യുന്ന ഫയലിലേക്ക് എഴുതുകയും ചെയ്യുന്നു കൂടാതെ അവസാനമായിട്ട് നമ്മൾ ഒരിക്കൽ പറഞ്ഞത് പോലെ നമ്മൾ ഒരു ഫയലിൽ പ്രവർത്തിച്ചതിന് ശേഷം നമ്മൾ അതിനെ ക്ലോസ് ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഫയലിലേക്ക് എഴുതുകയാണെങ്കിൽ ഫയലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഫറുകൾ ഫ്ലഷ് ചെയ്തിരിക്കണം അതുകൊണ്ട് fh close എന്ന ഫങ്ക്ഷൻ fh എന്ന ഫയൽ ഹാൻഡിലിനെ അടയ്ക്കും കൂടാതെ ഈ അവസരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ റൈറ്റുകളും ഡിസ്ക്കിലേക്ക് പകർത്തുന്നു നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയലുമായി ഇനി fh ന് ബന്ധമുണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് ഇതിന് ശേഷം നമ്മൾ fh ൽ ഏതെങ്കിലും പ്രവർത്തനത്തിന് ശ്രമിച്ചാൽ പൈത്തണിൽ നിർവ്വചിക്കപ്പെടാത്ത പേര് പോലെയിരിക്കും അത് ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഫയൽ അടയ്ക്കാതെ നമുക്ക് ബഫർ ഫ്ലഷ് ചെയ്യേണ്ടതായി വരാറുണ്ട് ഇതുവരെയുള്ള എല്ലാ റൈറ്റും യഥാർത്ഥത്തിൽ ഡിസ്ക്കിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് ചെയ്യുവാനായി ഫ്ലഷ് എന്ന് പേരുള്ള ഒരു കമാന്റുണ്ട് നമ്മൾ ഫ്ലഷ് പറയുകയാെങ്കിൽ മുഴുമിപ്പിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും റൈറ്റുകൾ ഉണ്ടെങ്കിൽ ബഫർ നിറയുന്നത് വരെ ഡിസ്ക്ക് ഡ്രൈവിന് വേണ്ടി കാത്തിരിക്കാതെ ദയവ് ചെയ്ത് അതിനെ ഡിസ്ക്കിലേക്ക് പകർത്തുക എന്ന് മാത്രം അത് പറയുന്നു മാത്രമല്ല അതിന് ശേഷം ഡിസ്ക്കിലേക്ക് സാധാരണ പോലെ റൈറ്റ് ചെയ്യുക പൈത്തണിൽ നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വരിവരിയായി പ്രോസസ് ചെയ്യുവാനുള്ള ഒരു സാധാരണ കാര്യം ഇവിടെയുണ്ട് ഒരു ലിസ്റ്റിലേക്ക് വരികളെ റീഡ് ചെയ്യുകയും അതിന് ശേഷം for ഉപയോഗിച്ച് ലിസ്റ്റിനെ പ്രോസസ് ചെയ്യുക എന്നതാണ് ഇത് ചെയ്യുവാനുള്ള സാധാരണ മാർഗ്ഗം അതുകൊണ്ട് content fh readlines എന്ന് നിങ്ങൾ പറയുന്നു അതിന് ശേഷം ഓരോ വരിയിലും കണ്ടെന്റിലും നിങ്ങൾ അതിൽ എന്തെങ്കിലും ചെയ്യുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾക്കിത് കൂടുതൽ ഒതുക്കമുള്ള മാർഗ്ഗത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് contents എന്ന പേര് മാറ്റിനിർത്തിക്കൊണ്ട് fh readlines എന്ന ഫങ്ക്ഷൻ ഉപയോഗിച്ച് ഓരോ വരിയും നേരിട്ട് റീഡ് ചെയ്യുക അതുകൊണ്ട് ഇത് അതേ ലൂപ്പിന്റെ രൂപീകരണത്തിന് തുല്യമാണ് ഈ വരിവരിയായുള്ള സംസ്കരണം എങ്ങിനെ ഉപയോഗിക്കണം എന്ന ഒരു ഉദാഹരണമെന്ന നിലക്ക് നമുക്ക് input txt എന്ന ഫയലിലിന്റെ കണ്ടെന്റിനെ output txt എന്ന ഒരു ഫയലിലേക്ക് പകർത്തണമെന്ന് സങ്കല്പിക്കുക അതുകൊണ്ട് ഫയൽ ശരിയായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾ യഥാർത്ഥത്തിൽ outfile ഓപ്പൺ ചെയ്യുന്നത് 'w' മോഡിലും infile ഓപ്പൺ ചെയ്യുന്നത് 'r മോഡിലും ആയിരിക്കും ഞാൻ റീഡ് ചെയ്യുന്നത് infile ലിൽ നിന്നാണെന്നും എഴുതുന്നത് outfile ലേക്ക് ആണുമെന്നാണ് ഇത് പറയുന്നത് infile ൽ നിന്ന് readlines റിട്ടേൺ ചെയ്യുന്ന ഓരോ വരിക്കും എനിക്ക് വരി ലഭിക്കുന്നത് readline ൽ നിന്നാണ് n നിലവിൽ അവിടെയുണ്ട് ഞാൻ n വരെ ഒന്നും ചെയ്തില്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ എനിക്ക് അതിനെ എഴുതുവാൻ സാധിക്കും അതുകൊണ്ട് infileoutfile readlines പ്രകാരം ഞാൻ റീഡ് ചെയ്ത ഓരോ വരിയിലും എനിക്ക് വെറുതെ അത് outfile ലേക്ക് എഴുതണം കൂടാതെ അവസാനം ഞാൻ രണ്ട് ഫയലുകളെയും അടയ്ക്കുന്നു ഒരു ഫയലിൽ നിന്ന് മറ്റൊരു ഫയലിലേക്ക് പകർത്തുവാനുള്ള ഒരു മാർഗ്ഗമാണിത് നമുക്ക് ഇത് ഒരു ഷോട്ടിൽ പോലും ചെയ്യാം കാരണം writeslines എന്ന കമാന്റ് സ്ട്രിങ്ങുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് അതിനെ ഒരു ഷോട്ടിൽ റൈറ്റ് ചെയ്യുന്നു അതുകൊണ്ട് ലിസ്റ്റിൽ വരിവരിയായി പോകുന്നതിന് പകരം നമുക്ക് ലിസ്റ്റിലെ കണ്ടെന്റിനെ മുഴുവൻ readlines ന് എടുക്കാം കൂടാതെ വെറുതെ writelines ൽ കൂടി ഔട്ട്പുട്ട് ചെയ്യുക ഇത് ഞാൻ മാറ്റിസ്ഥാപിച്ചതിനുള്ള ഒരു പകരം മാർഗ്ഗമാണിത് ഇത് അടിസ്ഥാനമായി for ന് പകരമാണ് അതുകൊണ്ട് infile ലെ ഓരോ വരിയും പറയുന്നതിന് പകരം എനിക്ക് നേരിട്ട് അതിനെ പുറത്തേക്ക് റൈറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഈ ന്യൂ ലൈൻ പ്രതീകത്തിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം അത് അല്പം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ് ഒരു ന്യൂ ലൈൻ പ്രതീകം ലഭിക്കുന്നതിനെപ്പറ്റിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നതെങ്കിൽ ഇത് ഒരു സ്ട്രിങ്ങ് മാത്രമാണെന്നും ന്യൂ ലൈൻ പ്രതീകം സ്ട്രിങ്ങിലെ അവസാന പ്രതീകമാണെന്നും ഓർമ്മിക്കുക അതുകൊണ്ട് സ്ട്രിങ്ങിന്റെ അവസാനത്തിന് തൊട്ടുമുമ്പ് വരെയുള്ള പ്രതീകങ്ങൾ മുറിച്ചെടുക്കുക എന്നതാണ് ഇത് ലഭിക്കുവാനുള്ള ഒരു മാർഗ്ഗം ഇപ്പോൾ നമ്മൾ പിറകിലോട്ട് എണ്ണുമ്പോൾ അവസാനത്തെ പ്രതീകം 1 ആണെന്ന് ഓർമ്മിക്കുക നമ്മൾ 0 മുതൽ 1 വരെ എടുക്കുകയാണെങ്കിൽ അത് കൃത്യമായി സ്ട്രിങ്ങിൽ നിന്ന് അവസാനത്തെ പ്രതീകം ഒഴിവാക്കും അതുകൊണ്ട് s line 1 ആണ് നമ്മൾ readlines ഉപയോഗിക്കുമ്പോൾ ലൈനും അവസാനത്തെ പ്രതീകത്തിന്റെ തുണ്ടും അതായത് n ആണ് നമുക്ക് ലഭിക്കുന്നത് പൊതുവിൽ നമുക്ക് മറ്റു സ്പേസുകളുമുണ്ടാവാം അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ടെക്സ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരിയുടെ അവസാനമുള്ള സ്പേസുകൾ കാണാൻ സാധിക്കില്ല കാരണം അവ നമുക്ക് അദൃശ്യമാണ് ഇതിന് പറയുന്ന പേരാണ് വൈറ്റ് സ്പേസ് അതുകൊണ്ട് സ്പേസുകൾ ടാബുകൾ ന്യൂ ലൈനുകൾ തുടങ്ങിയ പ്രതീകങ്ങൾ സ്കീനിൽ പ്രദർശിപ്പിക്കപ്പെടുകയില്ല പ്രത്യേകിച്ച് അവ ലൈനിന്റെ അവസാനമായിരിക്കും അവസാന പ്രതീകത്തിൽ ലൈൻ അവസാനിക്കുന്നു വാക്കുകൾക്ക് ശേഷം സ്പേസുകളുണ്ടായിരുക്കുമെന്ന് നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് rstrip ഒരു സ്ട്രിങ്ങ് കമാന്റാണ് അത് യഥാർത്ഥത്തിൽ ഒരു സ്ട്രിങ്ങിനെ എടുത്ത് അതിലെ പിന്നിലുള്ള വൈറ്റ് സ്പേസുകളെ അതായത് വരിയുടെ അവസാനമുള്ള മുഴുവൻ വൈറ്റ് സ്പേസുകളെയും നീക്കം ചെയ്യുന്നു പ്രത്യേകിച്ച് ഒരു n മാത്രമാണ് ഉണ്ടാവുക അത് ഒരു n ലേക്ക് സ്ട്രിപ്പ് ചെയ്യുന്നു അത് മറ്റു ജമ്പുകളിലേക്കും സ്ട്രിപ്പ് ചെയ്യുന്നു n ന് മുമ്പുള്ള കുറച്ച് സ്പേസുകളെയും ടാബുകളെയും റിട്ടേൺ ചെയ്യുന്നു അതുകൊണ്ട് s line rstrip വൈറ്റ് സ്പേസിന്റെ വലതുഭാഗത്ത് നിന്ന് സ്ട്രിപ്പ് ചെയ്യുന്നു അത് കൂടുതൽ പൊതുവായ കാര്യമാണ് എന്ന കാര്യമൊഴിച്ചാൽ അത് മുമ്പത്തെ വരിക്ക് തുല്യമാണ് കാരണം അവസാനത്തെ n പ്രകാരമുള്ള മുഴുവൻ വൈറ്റ് സ്പേസുകൾ മാത്രമല്ല വരിയുടെ അവസാനമുള്ള മുഴുവൻ വൈറ്റ് സ്പേസുകളെയും അത് സ്ട്രിപ്പ് ചെയ്യുന്നു നമുക്ക് ഇടത് ഭാഗത്ത് നിന്ന് സ്ട്രിപ്പ് ചെയ്യുവാൻ lstrip കൂടി ഉപയോഗിക്കാം അല്ലെങ്കിൽ l അല്ലെങ്കിൽ r പ്രതീകങ്ങളൊന്നുമില്ലാതെ രണ്ട് വശത്ത് നിന്നും സ്ട്രിപ്പ് ചെയ്യുവാൻ strip ഉപയോഗിക്കാവുന്നതാണ് ഇതൊക്ക സ്ട്രിങ്ങ് മാനിപ്പുലേഷൻ ഫംങ്ക്ഷനുകളാണ് നമ്മൾ അതിലെ കുറച്ചുകൂടി നോക്കും എന്നാൽ ഫയൽ കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത് പെട്ടെന്ന് വന്ന ഉപയോഗപ്രദമായ ഒന്ന് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ കണ്ട ചില കാര്യങ്ങളുടെ ചില ഉദാഹരണങ്ങൾ നമുക്ക് ശ്രമിച്ചുനോക്കാം "the quick brown fox jumps over the lazy dog " എന്ന വരി ഉൾക്കൊള്ളുന്ന input txt എന്ന ഫയൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് പൈത്തൺ ഇന്റർപ്രിറ്റർ ഓപ്പൺ ചെയ്ത് ഈ ഫയലിൽ നിന്ന് വരികളെ റീഡ് ചെയ്ത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ ശ്രമിക്കാം അതുകൊണ്ട് ഉദാഹരണത്തിന് നമുക്ക് പറയാം f open"input txt" "r" ഇപ്പോൾ ഞാൻ ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു ഇനി ഉദാഹരണത്തിന് എനിക്ക് പറയാം for line in f readlines print ഇനി ചില രസകരമായി കാര്യങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ ഫയലിൽ ഓരോ വരികൾക്കിടയിലും ഒരു ശൂന്യമായ വരിയുള്ളതായി നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫയലിൽ എന്തുകൊണ്ടാണ് ഓരോ വരികൾക്കിടയിലും ഒരു ശൂന്യമായ വരി ഉള്ളത് അതിന് കാരണം നമ്മൾ readlines ഉപയോഗിക്കുമ്പോൾ വരിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു n പ്രതീകം ലഭിക്കുന്നു അതുകൊണ്ട് the quick brown ഒന്നാമത്തെ വരി അവസാനിക്കുന്നത് n ൽ fox അസവാനിക്കുന്നത് n ൽ പിന്നെ അതിനുമുകളിലും നിങ്ങൾ ഓർമ്മിക്കുമെങ്കിൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് സ്വന്തമായി ഒരു n ചേർക്കുന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവയിൽ ഓരോന്നിനും പ്രിന്റ് ശൂന്യമായ വരികൾ ചേർക്കുന്നു ഇത് വീണ്ടും ചെയ്തുകൊണ്ട് നമുക്ക് ശ്രമിക്കാം ഇത് ഞാൻ ആവർത്തിക്കുകയാണ് മാത്രമല്ല വീണ്ടും ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക ഒന്നും സംഭവിക്കുന്നില്ല കാരണം ഫയലിനെ തുടർച്ചയായി റീഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത് അതുകൊണ്ട് ആദ്യം നമ്മൾ f readlines എന്ന് ചെയ്തു ഒരു സമയത്ത് അത് ഒരു വരി റീഡ് ചെയ്യുന്നു മാത്രമല്ല നമ്മൾ യഥാർത്ഥത്തിൽ ഫയലിന്റെ അവസാനത്തിലേക്ക് പോയിന്റ് ചെയ്യുന്നു ഉദാഹരണത്തിന് ഈ സമയത്ത് നമ്മൾ text f read എന്ന് പറയുകയാണെങ്കിൽ text ശൂന്യമായ ഒരു സ്ട്രിങ്ങായിരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ ഫയലിന്റെ അവസാനമെത്തിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണിത് അതുപോലെ നമ്മൾ വീണ്ടും readline ശ്രമിച്ചാൽ text ശൂന്യമായ ഒരു സ്ട്രിങ്ങായിരിക്കും അതുകൊണ്ട് read അല്ലെങ്കിൽ readlines തിരിച്ചുകൊടുക്കുന്നത് ശൂന്യമായ സ്ട്രിങ്ങാണെങ്കിൽ നമ്മൾ ഫയലിന്റെ അവസാനമെത്തിയിരിക്കുന്നു ഫയൽ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും തുടങ്ങുക എന്നതാണ് നമുക്കിത് പഴയ പടിയാക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം അതുകൊണ്ട് നമ്മളെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ f close ആണ് ഇത് ഫയലിനെ ക്ലോസ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ f read ചെയ്യാൻ ശ്രമിച്ചാൽ ഇത് നിർവ്വചിച്ചിട്ടില്ല എന്ന് ഒരു എറർ നമുക്ക് ലഭിക്കും അതുകൊണ്ട് നമുക്കിനി f ഇല്ല അതുകൊണ്ട് നമുക്ക് f open"input txt" "r" എന്ന് നമുക്ക് പറയേണ്ടി വരും കൂടാതെ നമുക്ക് ഓരോ വരിക്കും വേണ്ടി for line in f readlines എന്ന് പറയാം ഇപ്പോൾ നമ്മൾ അവസാന സമയത്ത് ഉപയോഗിച്ച ആ തന്ത്രം ഉപയോഗിച്ച് പറയുന്നു end "" ഓരോ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന് ശേഷവും ഒന്നും കൂട്ടിച്ചേർക്കരുത് എന്നാണ് ഇത് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ അധികമായുള്ള ശൂന്യമായ വരികളില്ലാതെ ഇൻപുട്ട് ഫയലിലേക്ക് കൃത്യമായി തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം കാരണം പ്രിന്റ് ഈ അധിക വരികളെ മേലിൽ സൃഷ്ടിക്കുന്നില്ല txt നെ output txt ലേക്ക് പകർത്തണമെന്ന് പറയാം നമ്മൾ പറയുന്നു മുമ്പത്തേത് പോലെ f open"input txt" "r" എന്നും g open"output txt" "w" എന്നും നമ്മൾ പറയുന്നു കൂടാതെ നമ്മൾ പറയുന്നു for line in f readlines g write നിങ്ങൾക്ക് തുടർച്ചയായ സംഖ്യകൾ ലഭിക്കുന്നത് ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് തുടർച്ചയായ സംഖ്യകൾ നമുക്ക് ലഭിക്കുന്നത് അതിന് കാരണം ഓരോ പ്രാവശ്യവും നമ്മൾ എന്തെങ്കിലും എഴുതിയാൽ അത് പ്രതീകങ്ങളുടെ എണ്ണം തിരിച്ചു കൊടുക്കുന്നുണ്ട് കൂടാതെ അത് മാറി വരികയും ചെയ്യുന്നു ഉദാഹരണത്തിന് നിങ്ങൾ quick brown fox തുടങ്ങിയ വരികളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വരി fox എന്ന് മാത്രമാണ് fox ന് 3 അക്ഷരങ്ങളുണ്ട് എന്നാൽ നിങ്ങൾ n ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് 4 അക്ഷരങ്ങൾ എഴുതുന്നു അതുകൊണ്ടാണ് quick brown ന് 15 അക്ഷരങ്ങൾ കൂട്ടണം ഒരു n fox ന് 3 അക്ഷരങ്ങൾ കൂട്ടണം ഒരു n അതുകൊണ്ട് ഇത് വരിവരിയാണ് ഇപ്പോൾ ഞാൻ ആ ഫയലുകളെ കൃത്യമായി ക്ലോസ് ചെയ്ത് പുറത്ത് വരിക പിന്നെ output txt എന്ന ഫയൽ input txt എന്ന ഫയലിന് സമതുല്യമായിരിക്കും ചുരുക്കത്തിൽ നമ്മളെന്താണ് കണ്ടത് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഫയലുകളുമായി സമ്പർക്കം പുലർത്തണമെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നത് ഫയൽ ഹാൻഡിലുകൾ വഴിയാണ് അത് യഥാർത്ഥിൽ നമ്മൾ മെമ്മറിയും ഡിസ്ക്കിലെ ഫയലും തമ്മിലുള്ള സമ്പർക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബഫറുകളുമായി യോജിക്കുന്നു നമുക്ക് ഒരു ഫയലിനെ മൂന്നിൽ ഏതെങ്കിലും ഒരു രീതിയിൽ തുറക്കാവുന്നതാണ് റീഡ് റൈറ്റ് അപ്പെൻഡ് നമ്മൾ യഥാർത്ഥത്തിൽ അപ്പെൻഡ് വെച്ച് ഒരു ഉദാഹരണം ചെയ്തിട്ടില്ല എന്നാൽ നിലവിലുള്ള ഫയലിലേക്ക് അവസാനം എഴുതിക്കൊണ്ട് തുടരുക അത് എന്ത് ചെയ്യുമെന്ന് നമ്മൾ അപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റൈറ്റ് ഫയലിനെ നീക്കം ചെയ്യുന്നതായിരിക്കും മാത്രമല്ല ആദ്യം മുതൽ ആരംഭിക്കേണ്ടി വരും നമ്മൾ read readline readlines എന്നിവ കണ്ടു ഇവ ഉപയോഗിച്ച് നമുക്ക് ഒരു ഫയലിനെ മുഴുവൻ ഒറ്റയടിക്ക് ഒരു സ്ട്രിങ്ങിലേക്ക് റീഡ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ വരിവരിയായി റീഡ് ചെയ്യാം അതുപോലെ നമുക്ക് ഒന്നുകിൽ ഒരു സ്ട്രിങ്ങിനെ റൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സ്ട്രിങ്ങുകളുടെ ഒരു ലിസ്റ്റിനെ റൈറ്റ് ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് ഒരു റൈറ്റ് കമാന്റുണ്ട് കൂടാതെ കൂടുതൽ കൃത്യമായി സ്ട്രിങ്ങുകളുടെ ലിസ്റ്റിനെ റൈറ്റ് ചെയ്യുന്നു അവസാനമായി നമ്മൾ ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് ഫയൽ ഹാൻഡിൽ ക്ലോസ് ചെയ്യാവുന്നതാണ് കൂടാതെ നമുക്ക് flush കമാന്റുപയോഗിച്ച് ബഫർ ഫ്ലഷ് ചെയ്യാവുന്നതുമാണ് മാത്രമല്ല വൈറ്റ് സ്പേസുകളെ സ്ട്രിപ്പ് ചെയ്യുവാനുള്ള കുറച്ച് സ്ട്രിങ്ങ് പ്രവർത്തനങ്ങളൾ കൂടിയുണ്ടെന്നും നമ്മൾ കാണുകയുണ്ടായി ടെക്റ്റ് ഫയലുകളെ പ്രോസസ് ചെയ്യുമ്പോൾ പിന്നിലെ n പോലെയുള്ള വൈറ്റ് സ്പേസുകളെ നീക്കം ചെയ്യുവാൻ ഇത് ഉപകാരപ്രദമാണ്